ഹായ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് I ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഇൻഡിറ്റർമിനെറ്റ് ഫോം ഭാഗം 2 തുടരും ഇത് പ്രഭാഷണ നമ്പർ 4 ആണ് സിംഗിൾ വേരിയബിളിന്റെ ഡിഫറൻഷ്യൽ കാൽക്കുലസും ഫംഗ്ഷനുകളും നമ്മൾ ചർച്ച ചെയ്യുന്നു ഇന്ന് ∞ ∞ 00 ∞0 1∞ എന്നീ തരത്തിലുള്ള ഇൻഡിറ്റർമിനെറ്റ് രൂപങ്ങൾ ചർച്ചചെയ്യപ്പെടും മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് ഓർമിക്കാൻ നമ്മൾ ഇതിനകം ഈ രണ്ട് രൂപങ്ങൾ ചർച്ചചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ 00 ∞∞ ഈ രണ്ട് ഇൻഡിറ്റർമിനെറ്റ് രൂപങ്ങളെ ചർച്ചചെയ്തു ഈ L ഹോസ്പിറ്റൽ റൂൾ വളരെ സഹായകരമാണെന്ന് നമ്മൾ അവിടെ കണ്ടത് ഈ f g എന്നിവയുടെ അനുപാതം f g എന്നിവ രണ്ടും 0 ലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവ രണ്ടും ∞ പോകുന്നു ഈ അനുപാതത്തിന്റെ ലിമിറ്റ് വലതുവശത്ത് ഈ ലിമിറ്റ് നൽകിയിട്ടുള്ള ഡെറിവേറ്റീവുകളുടെ ലിമിറ്റിന് തുല്യമായിരിക്കും ഈ f g എന്നിവയിലെ എല്ലാ നിബന്ധനകളും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഈ പ്രക്രിയ തുടരാമെന്നും നമ്മൾ കണ്ടു ഈ f g എന്നിവ രണ്ടും 0 ലേക്ക് പോകുന്നു അല്ലെങ്കിൽ ∞ ലേക്ക് പോകുന്നു ഈ വ്യത്യാസത്തിൽ ഈ പ്രക്രിയ തുടരാമെന്നും വീണ്ടും നമുക്ക് ന്യൂമറേറ്ററിനെയും വീണ്ടും ഡിനോമിനേറ്ററിനെയും ഡിഫറെന്ഷിയേറ്റ് ചെയ്യാമെന്ന് നിയമങ്ങൾ പറയുന്നു ഈ ലിമിറ്റ് കൈവരിക്കുന്ന സമയം വരെ നമുക്ക് ലിമിറ്റ് എടുക്കാം ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും അനുപാതത്തിന്റെ ഈ ലിമിറ്റ് നിലനിൽക്കുന്നു എന്നതാണ് പ്രധാന കാര്യം ഇവിടെ ഈ ലിമിറ്റ് നിലവിലില്ല ഉദാഹരണത്തിന് ഈ ലിമിറ്റ് നിലവിലില്ല g ന് മുകളിലുള്ള f അനുപാതത്തിന്റെ യഥാർത്ഥ ലിമിറ്റ് ഇവിടെ നിലവിലില്ലെന്ന് നമ്മൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഇന്ന് നമ്മൾ 0x∞ എന്ന തരം ഇൻഡിറ്റർമിനെറ്റ് രൂപത്തിൽ തുടരും f 0 ലേക്ക് പോകുന്നുവെന്നും ഈ g ∞ ലേക്ക് പോകുന്നു എന്നും കരുതുക X a എന്നതിലേക്ക് പോകുമ്പോൾ f g പോകുന്നത് ഇൻഡിറ്റർമിനെറ്റ് കാരണം ഇത് കൃത്യമായി 0 ഉം ∞ ഉം ആണ് ഇത് അവസാന പ്രഭാഷണത്തിൽ ചർച്ച ചെയ്ത എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിച്ച് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ അത്തരമൊരു പ്രോഡക്റ്റ് ഉള്ളപ്പോൾ ഒരു f ഈ ഫംഗ്ഷൻ 0 ലേക്ക് പോകുകയും മറ്റൊന്ന് ∞ ലേക്ക് പോകുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ ഇവിടെ മാറ്റിയെഴുതാം ഇവിടെ ഈ സാഹചര്യത്തിൽ f 0 ലേക്ക് പോകുന്നു തുടർന്ന് ഈ 1g ഉം 0 ലേക്ക് പോകും നമുക്ക് ഇവിടെ 00 ഫോം ഉണ്ട് ഈ ഫോമിൽ മാറ്റിയെഴുതാനും നമുക്ക് ഈ g ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഈ f നെ 1 f ആയി എടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ g ∞ നും 1 f നും f 0 ലേക്ക് പോകുന്നു ഇവിടെ ഈ പദം 1 f ∞ ലേക്ക് പോകുന്നു നമ്മൾക്ക് ∞ ∞ ഫോം ഉണ്ട് രണ്ടായാലും നമുക്ക് L ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കുന്നതിലൂടെ നമ്മൾക്ക് ലിമിറ്റ് നേടാനാകും കാരണം 00 അല്ലെങ്കിൽ ∞∞ ഫോമുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ഇതിനകം പഠിച്ചു നമുക്ക് ഇവിടെ ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം ഈ പ്രശ്നത്തിന് ഈ L ഹോസ്പിറ്റൽ നിയമം പ്രയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു x ∞ ലേക്ക് പോകുന്നു ഇവിടെ നമുക്ക് x ∞ ലേക്ക് പോകുന്നു 2 x 0 ലേക്ക് പോകുന്നു ഇത് ∞ × 0 ഫോം ആണ് ഈ സാഹചര്യത്തിൽ 00 അല്ലെങ്കിൽ ∞ ∞ ഫോം നിർമ്മിക്കാൻ കഴിയുമെന്ന് മുകളിൽ ചർച്ച ചെയ്ത ഈ ആശയം നമ്മൾ ഉപയോഗിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ x നെ 1 x ആയി ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം തുടർന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് 00 ഫോം ഉണ്ട് 0 ലും 1 x 0 ലും പോകുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ LHospital റൂൾ പ്രയോഗിക്കാൻ കഴിയും കാരണം നമുക്ക് 00 ഫോമും തുടർന്ന് sin ന്റെ ഡെറിവേറ്റീവും ഉണ്ട് ഇതാണ് ഇപ്പോൾ ഈ 2 x2 ഉം ഈ 1 x2 ഉം x2 റദ്ദാക്കപ്പെടും തുടർന്ന് x ∞ ലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് x ∞ ലേക്ക് പോകുന്നു 2 x 0 ലേക്ക് പോകുന്നു തുടർന്ന് 1 ലേക്ക് പോകുന്നു നമുക്ക് ഈ 2 ഇവിടെയുണ്ട് അതിനാൽ ലിമിറ്റ് 2 ആണ് ഇപ്പോൾ അവസാന സ്ലൈഡിൽ നമ്മൾ കണ്ടതുപോലെ ഈ എൽ ഹോസ്പിറ്റൽ നിയമം 00 അല്ലെങ്കിൽ ∞ ∞ ഫോമിന് ബാധകമാകുമെങ്കിലും ഒരു പ്രത്യേക കേസിൽ ഒരാൾ മികച്ചതായിരിക്കാം ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇത് കാണാം ഈ ഫോമുകൾക്കിടയിൽ നമുക്ക് മാറാൻ കഴിയും എന്നതാണ് കാര്യം ഉദാഹരണത്തിന് ഈ f 0 എന്നത് 00 എന്ന രൂപത്തിലാണ് അതിനുശേഷം നമുക്ക് 1 g എന്ന് 1 f കൊണ്ട് ഹരിക്കാം ഈ സാഹചര്യത്തിൽ ഈ f g എന്നിവ 0 ലേക്ക് പോയാൽ നമുക്ക് ∞ ∞ ഫോം അല്ലെങ്കിൽ f g എന്നിവ രണ്ടും ∞ ലേക്ക് പോയാൽ 1 g 1 f കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 00 എന്ന രൂപം ഉണ്ടാകും അവിടെയുള്ള ഡെറിവേറ്റീവിന്റെ സൌകര്യത്തെ ആശ്രയിച്ച് നമുക്ക് 00 ∞∞ എന്നീ രണ്ട് ഫോമുകൾ പരസ്പരം മാറ്റാം ഉദാഹരണമായി ഈ ലിമിറ്റ് x വലതുവശത്ത് നിന്ന് 0 ലേക്ക് പോകുന്നു xnln x ഇവിടെ n ഒരു നാച്ചുറൽ സംഖ്യയാണ് ഈ സാഹചര്യത്തിൽ ഇത് 00 ഫോം സോറി ∞ ∞ ഫോം ആണെന്ന് പരിഗണിക്കുന്നത് വളരെ സൌകര്യപ്രദമാണ് നമ്മൾ ഈ ln x നെ ന്യൂമറേറ്ററിൽ സൂക്ഷിക്കുകയും ഈ xn നെ 1xn ആയി ഡിനോമിനേറ്ററിൽ കൊണ്ടുവരികയും ചെയ്യുന്നു x 0 ലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്റർ ഇൻഫിനിറ്റിയിലേക്കും ഇവിടെ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്കും പോകുന്നു നമ്മൾക്ക് ∞ ∞ ഫോം ഉണ്ട് ഈ സാഹചര്യത്തിൽ ഈ ln x ന്റെ ഡെറിവേറ്റീവ് കേവലം 1 x ഉം 1 x n ന്റെ ഡെറിവേറ്റീവ് മൈനസ് x n 1 ഉം ആണ് തുടർന്ന് നമുക്ക് ഇത് ലളിതമാക്കാൻ കഴിയും നമുക്ക് ലിമിറ്റ് 0 ഉണ്ട് കാരണം ഇവിടെ നമുക്ക് x പവർ n പ്ലസ് 1 ഉം n ഒരു നാച്ചുറൽ സംഖ്യയുമാണ് 1 2 3 n എന്തായാലും നിങ്ങൾക്ക് അവിടെ x പവർ ലഭിക്കും x 0 ലേക്ക് പോകുമ്പോൾ അത് 0 ആയി മാറും അതേ ഉദാഹരണത്തിൽ നിങ്ങൾ xn ഉം ln x ഉം പരിഗണിച്ചിരുന്നെങ്കിൽ ഈ 1 ln x ന്റെ ഡെറിവേറ്റീവ് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുമായിരുന്നു മാത്രമല്ല ഇത് അത്തരമൊരു ലളിതമായ കണക്കുകൂട്ടൽ ആയിരിക്കില്ല ഒരു പ്രത്യേക ഉദാഹരണത്തിൽ 00 അല്ലെങ്കിൽ ∞ ∞ സൌകര്യപ്രദമാണോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം ഇപ്പോൾ നമ്മൾ ∞ ∞ തരത്തിന്റെ ഇൻഡിറ്റർമിനെറ്റ് രൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യും f ഇൻഫിനിറ്റിയിലേക്കും g ഇൻഫിനിറ്റിയിലേക്കും പോകുന്നു എന്ന് കരുതുക ഈ ∞ ∞ ഫോം ഇൻഡിറ്റർമിനെറ്റ് രൂപമാണെന്നും അത്തരം ലിമിറ്റ്കൾ വിലയിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചർച്ചചെയ്തിട്ടുണ്ട് നമുക്ക് ഈ f g പദം മാറ്റിയെഴുതാം f g നെ f g കൊണ്ട് വിഭജിച്ച് f g കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ ഈ പദം നമുക്ക് ഈ സാഹചര്യത്തിൽ f g എന്നിവ രണ്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു നമുക്ക് ഇത് 0 ഉം പിന്നീട് വീണ്ടും മൈനസ് 0 ഉം ആണ് ഇവിടെ 0 ഉം 1 ഓവർ ∞ മുതൽ ∞ ഉം ആയിരിക്കും ∞ ഇത് ഒരു ഇൻഡിറ്റർമിനെറ്റ് രൂപമല്ല അതിനാൽ 1 ഓവർ ∞ ഇത് വീണ്ടും 0 ആണ് എൽ ഹോസ്പിറ്റൽ റൂളിന്റെ സഹായത്തോടെ നമ്മൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 00 ഫോം ഇവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ലളിതമായ ഉദാഹരണം വീണ്ടും എടുക്കാം ഇവിടെ x 0 ലേക്ക് പോകുന്നതിനാൽ നമുക്ക് ഈ 1 0 ഉണ്ട് ഇത് ലേക്ക് പോകുന്നു വീണ്ടും ഇവിടെ 1 0 വരെ പോകുന്നു ഈ പ്രശ്നത്തിൽ നമ്മൾക്ക് ∞ ∞ ഫോം ഉണ്ട് മുകളിൽ ചർച്ച ചെയ്തതുപോലെ നമുക്ക് ഇത് എന്നും പിന്നീട് 2 നെ x2 എന്നും തിരിക്കാം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 0 ലേക്ക് പോകുകയും 0 നെ മൈനസ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ 0 നെ 0 കൊണ്ട് ഹരിക്കുന്നു ഈ ∞ ∞ ഫോം 00 ഫോമിലേക്ക് മാറുന്നു ഇത് എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും ഇവിടെ കൂടുതൽ നീങ്ങുന്നു എൽ ഹോസ്പിറ്റൽ നിയമം പ്രയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് എടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ ഈ രൂപത്തിൽ മാറ്റിയെഴുതുന്നു നമ്മൾ അവിടെ 1x2 എടുത്ത് 1x2 കൊണ്ട് ഹരിക്കുന്നു ഈ x2 ഉം ഉം ഒരുമിച്ച് തുടർന്ന് ഇവിടെ ഇതിനകം x2 ഉണ്ടായിരുന്നു 1 നമ്മൾ അങ്ങനെ വിഭജിച്ചു നമുക്ക് x4 ഉണ്ട് ഈ ലിമിറ്റ് നെ കൊണ്ട് ഹരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തേത് ഒന്ന് പരിഗണിക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് വീണ്ടും ഈ 00 ഫോം ഉണ്ട് 0 മൈനസ് 0 ലേക്ക് പോകുകയും പിന്നീട് 0 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു നമുക്ക് ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും ഇത് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 2sin x sin x ന്റെ ഡെറിവേറ്റീവു cos x ആയിരിക്കും എന്ന് പറയുന്നു x2 ന്റെ ഡെറിവേറ്റീവ് 2x x4 ന്റെ ഡെറിവേറ്റീവ് 4x3 ഉം x ലിമിറ്റ് 0 ഉം ആയി വിഭജിക്കും ഇവിടെ വീണ്ടും നമുക്ക് sin 2x ഡെറിവേറ്റീവ് 2sinxcosx എന്നത് sin 2x 2 x എന്നത് 4 x3 കൊണ്ട് ഹരിക്കുന്നു Sin 2x 0 ലേക്ക് പോകുന്നു ഈ x 0 ലേക്ക് പോകുന്നു നമ്മൾ വീണ്ടും 00 ഫോം ഉപയോഗിച്ച് അവസാനിക്കുന്നു അത് വീണ്ടും വേർതിരിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് sin2x ഉണ്ട് അത് 2 cos2x ഉം മൈനസ് ഈ 2 x ന്റെ ഡെറിവേറ്റീവ് വെറും 2 ഉം 4x3 12x2 ഉം ആയിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ലിമിറ്റ് വീണ്ടും പരിശോധിക്കുമ്പോൾ 2cos 2x ഉം x ഉം 0 ലേക്ക് പോകുന്നു ഇത് 1 അതിനാൽ 2 2 അതായത് 0 അതിനാൽ വീണ്ടും നമുക്ക് 00 ഫോം ഉണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അൽപ്പം ലളിതമാക്കാൻ കഴിയും അതായത് cos 2x ആണ് നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുക ഞാൻ ഇവിടെ എക്സർസൈസ് ചെയ്യട്ടെ ഈ cos 2x പദം നമുക്ക് 1 മൈനസ് 2 sin2x എന്ന് എഴുതാം തുടർന്ന് നിങ്ങൾക്ക് അവിടെ മൈനസ് 1 ഉണ്ട് നമുക്ക് പൊതുവായി എടുക്കാവുന്ന 2 ഇവിടെ ഈ 12 ലേക്ക് വിഭജിക്കാം ഇത് 1 മൈനസ് 1 ആണ് റദ്ദാക്കപ്പെടും കൂടാതെ നമ്മൾക്ക് 2sin2x ഉണ്ട് 6 x2 കൊണ്ട് ഹരിക്കുന്നു ഈ 13 മൈനസ് 13 തുടർന്ന് ഇവിടെ നമുക്ക് x എന്ന ലിമിറ്റ് x2 ന് മുകളിലുള്ള 0 sin2x ലേക്ക് പോകുന്നു ഇപ്പോൾ ഇവിടെ ഈ ലിമിറ്റ് x2sin2x sin2xx2 സമാനമാണ് ഈ രണ്ട് ലിമിറ്റ്കളും സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കാണും നമുക്ക് sin2xx2 കണക്കാക്കാമായിരുന്നു രണ്ടും ഒരേ ലിമിറ്റിന് കാരണമാകും ലിമിറ്റ് x2sin2x ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ഒരു എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും കാരണം ഇത് 00 ഫോമാണ് തുടർന്ന് നമ്മൾക്ക് ഇവിടെ ലിമിറ്റ്യുണ്ട് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആയി മാറും തുടർന്ന് sin2x നമുക്ക് 2sinxcosx നൽകും ഇവിടെ നമുക്ക് വീണ്ടും 00 ഫോം ഉണ്ട് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 2 നൽകും കൂടാതെ sin2x എന്ന ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 2cos2x നൽകും ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എടുത്താൽ x 0 ആയി പോകുന്നു cos 0 1 ആണ് 22 ലിമിറ്റ് 1 ആണ് ഇവിടെ നമ്മൾ x ന് മുകളിലുള്ള sin2x എന്ന് പരിഗണിക്കുകയാണെങ്കിൽ അത് കൃത്യമായി കാരണമാകും അതേ ഫോം ലിമിറ്റ് 1 ലേക്ക് നയിക്കും കാരണം നമുക്ക് റിവേഴ്സ് മാത്രമേ ഉണ്ടാകൂ കാരണം ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും നമ്മൾ ലിമിറ്റ് 1 ൽ അവസാനിക്കും ഇവിടെ ഇപ്പോൾ യഥാർത്ഥ ലിമിറ്റ്ലേക്ക് മടങ്ങുന്നു ഈ ലിമിറ്റ് 0 എന്നതിലേക്ക് പോകുന്നു കൂടാതെ രണ്ടാമത്തെ ടേമിനുള്ള ലിമിറ്റ് മൈനസ് 3 ആണെന്നും ഇത് 1 ആകുമെന്നും നമ്മൾ വിലയിരുത്തി അതിനാൽ 13 ഇത് 1 ഉം ഇത് 13 ഉം ആണ് ലിമിറ്റ് 13 ഇപ്പോൾ ഇത്തരത്തിലുള്ള അടുത്ത ഉദാഹരണം x ലേക്ക് പോകുമ്പോൾ ഈ പദപ്രയോഗത്തിന്റെ രൂപം എന്താണ് എന്നതാണ് ചോദ്യം നമുക്ക് അങ്ങനെ പരിശോധിക്കാം ഇവിടെ x ലേക്ക് പോകുന്നു നമ്മൾക്ക് ഇപ്പോൾ ∞ ഇവിടെയുണ്ട് x ലേക്ക് പോകുമ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കണം ഇത് 1 മൈനസ് ആണ് ഇവിടെ ഈ എക്സ്പ്രഷൻ 1 1 x ആണ് ഇത് 1 ൽ കുറവാണ് ഇവിടെ ലോഗരിഥമിക് ln നമ്മൾ ഗ്രാഫ് വരച്ചാൽ അത് ഇവിടെ 1 ആണ് ലോഗരിഥമിക് 1 ൽ താഴെ നെഗറ്റീവ് മൂല്യം എടുക്കുന്നു ഇവിടെ ഡിനോമിനേറ്ററിൽ ln1 1x എല്ലാ നെഗറ്റീവ് മൂല്യങ്ങളും എടുക്കുന്നു x ലേക്ക് പോകുമ്പോൾ ∞ ഇത് 1 ലേക്ക് പോകുന്നു അങ്ങനെ ഈ മൂല്യങ്ങളെല്ലാം നെഗറ്റീവ് ആയിരുന്നു 10 ഇത് യഥാർത്ഥത്തിൽ ∞ ലേക്ക് പ്രവണത കാണിക്കുന്നു ഈ ഫോം നമുക്കുള്ളത് ∞ ആണ് നമുക്ക് അങ്ങനെ അപേക്ഷിക്കാം വീണ്ടും ഞാൻ എഴുതി ഈ പദം ഇവിടെ അതിനാൽ നമ്മൾക്ക് ഫോം ഉണ്ട് മുമ്പത്തെ ഉദാഹരണത്തിൽ ചെയ്തതുപോലെ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യും നമുക്ക് x ഓവർ ln 1 1x ഉണ്ട് ഇത് മാറ്റിയെഴുതാം ഇപ്പോൾ ഇവിടെ എന്താണ് ലിമിറ്റ് എന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് x ∞ എന്നതിലേക്ക് പോകുമ്പോൾ ഈ 1 ln1 0 ലേക്ക് പോകുന്നു ഇവിടെ നമുക്ക് ഇപ്പോൾ 0 ഉണ്ട് ഈ 1 ഈ x ln⁡1 - 1x ലിമിറ്റ് x ലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് ∞ ഇവിടെയും പിന്നീട് ln 1 ഉം 0 ഉം ഉണ്ട് ലിമിറ്റ് x ln 1 - 1x എന്നിവ 1 x കൊണ്ട് ഹരിക്കുന്നതിനാൽ ഇത് മാറ്റിയെഴുതണം ഇപ്പോൾ ഇത് ln1 ലേക്ക് പോകുന്നു അത് 0 ഉം ഇവിടെ 0 ഉം ആണ് നമ്മൾക്ക് 00 ഫോം ഉണ്ട് കൂടാതെ നമുക്ക് L ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും ഇവിടെ ln 1 1 x എന്നത് x 1 ന് മുകളിലുള്ള ഡെറിവേറ്റീവ് x ഉം 1 x2 ആയ ഈ പദത്തിന്റെ ഡെറിവേറ്റീവും ആയിത്തീരും തുടർന്ന് മൈനസ് ചിഹ്നമുള്ള 1 x2 ഉം ഇവിടെയുണ്ട് ഇത് റദ്ദാക്കപ്പെടും തുടർന്ന് നമ്മൾക്ക് മൈനസ് ചിഹ്നം ലഭിക്കും x തുടർന്ന് മൈനസ് 1 പ്ലസ് 1 എന്നിവ x 1 കൊണ്ട് ഹരിക്കുന്നു x മൈനസ് 1 ന് മുകളിലുള്ള 1 പ്ലസ് 1 എന്നും ലിമിറ്റ് x ലേക്ക് പോകുമ്പോഴും നമുക്ക് ഇത് എഴുതാം ഇത് 0 ലേക്ക് പോകുന്നു ഈ ലിമിറ്റ് ഇവിടെ 1 ആയി ലഭിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് 1 മൈനസ് 1 0 ഉണ്ട് അതിനെ 0 കൊണ്ട് ഹരിക്കുന്നു ഇത് അടിസ്ഥാനപരമായി 00 ഫോമാണ് ഇപ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും ഈ പദത്തിന്റെ ഡെറിവേറ്റീവും ഈ പദത്തിന്റെ ഡെറിവേറ്റീവും നമുക്ക് ലഭിക്കണം ഈ പദത്തിന്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് നിയമം ഇവിടെ ബാധകമാകും x ന്റെ ഡെറിവേറ്റീവ് 1 ആണ് അതിനുശേഷം നമുക്ക് കൃത്യമായി ln 1 1 x എന്ന പദം ഉണ്ട് കൂടാതെ പ്ലസ് x എന്നത് x 1 x2 ഈ x ഇതിനെ x2 ആക്കുകയും വീണ്ടും ഇവിടെ ഇത് x 1x2 ആക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇത് 0 ആണ് പിന്നീട് ഇവിടെ വീണ്ടും 0 ആണ് അതുപോലെ ഇവിടെയും 0 നമ്മൾക്ക് വീണ്ടും 00 ഫോം ഉണ്ട് ഈ പദപ്രയോഗത്തിന് നമ്മൾ വീണ്ടും L'Hospital റൂൾ പ്രയോഗിക്കേണ്ടതുണ്ട് മുമ്പത്തെപ്പോലെ ഇവിടെ ഡെറിവേറ്റീവ് 1 ആണ് ഈ പദത്തിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1 2 ആയി മാറും ഇവിടെ നമുക്ക് 1 x ഉണ്ട് ഡെറിവേറ്റീവ് ഉം ഈ x ന്റെ ഡെറിവേറ്റീവ് 2x 1 ഉം ആയിരിക്കും ഇപ്പോൾ വീണ്ടും ഈ പദം അൽപ്പം ലളിതമാക്കിയാൽ നമുക്ക് എന്ത് ലഭിക്കും ഞാൻ ഇവിടെ ന്യൂമറേറ്ററിൽ x2 x 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് നെഗറ്റീവ് ചിഹ്നത്തിലൂടെ x x2 എന്നിവ ലഭിക്കും തുടർന്ന് ഇത് 2x 1 ആയി മാറും x2 ഉള്ള ഈ x റദ്ദാക്കപ്പെടും നമ്മൾക്ക് ഈ 1 x ഉണ്ട് ഈ മൈനസ് അതിനെ പ്ലസ് ആക്കും x2x 1 ന് വീണ്ടും ഇവിടെ 2 അങ്ങനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം 1 1 നമുക്ക് ഈ 1 1 ഉണ്ട് x ∞ ലേക്ക് പോകുമ്പോൾ ഇത് 1 ആകുകയും പകുതി അവിടെ ഇരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ മൂല്യം പകുതിയാകും ഇപ്പോൾ 00 ∞0 1∞ എന്നീ തരം ഇൻഡിറ്റർമിനെറ്റ്ത്തിലേക്ക് നമ്മൾ നീങ്ങും ഈ ലിമിറ്റ്കളെല്ലാം നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും ഈ f g എന്നത് x a ലേക്ക് പോകുമ്പോൾ ഈ f g എന്നിവയ്ക്ക് ഇനിപ്പറയുന്ന ഗുണങ്ങളുണ്ടെന്ന് കരുതുക ആദ്യത്തേത് f 0 ലും g 0 ലും പോകുന്നു അതിനാൽ നമുക്ക് ഈ ലിമിറ്റ് 00 ആയി ഉണ്ട് രണ്ടാമത്തെ കേസിൽ f 0 ലേക്ക് പോകുന്നുവെന്നും ഈ g 0 ലേക്ക് പോകുന്നുവെന്നും നമ്മൾ പരിഗണിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് 00 ഫോം ഉണ്ട് മൂന്നാമത്തെ കേസിൽ f പോകുമ്പോൾ 1 നമുക്ക് ഇവിടെ 1 ഉണ്ട് ഈ g ∞ അതിനാൽ 1 പവർ ഇൻഫിനിറ്റി 3 ആം ഫോമിലേക്ക് പോകുന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഇവിടെ ഒരു പുതിയ ഫംഗ്ഷൻ f g y ആയി കണക്കാക്കുന്നു ലിമിറ്റ് ln y ആയി എടുക്കുമ്പോൾ f പവർ g അത് g ln f ആയി മാറും ഇപ്പോൾ ഉദാഹരണത്തിന് f 0 ലേക്ക് പോകുമ്പോൾ ആദ്യ കേസ് ഇത് ∞ ലേക്ക് പോകുകയും g 0 ലേക്ക് പോകുകയും 0 × ∞ ഫോം ആകുകയും ചെയ്യും രണ്ടാമത്തെ കേസിൽ f ∞ ലേക്ക് പോകുമ്പോൾ ഇത് അനന്തമായിത്തീരുകയും g 0 ലേക്ക് പോകുകയും ചെയ്യും വീണ്ടും f 1 ലേക്ക് പോകുമ്പോൾ g ∞ ln 1 എന്നിവ 0 ആയിത്തീരും അതിനാൽ നമുക്ക് വീണ്ടും 0 x ∞ ഫോം ലഭിക്കും ഈ സന്ദർഭങ്ങളിലെല്ലാം f 0 g 0 ലേക്ക് പോകുന്നു എന്നത് 0 എന്നതിന്റെ അർത്ഥം 00 ഫോം ഈ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് 0 × ∞ ഫോം ലഭിക്കും ഈ എക്സ്പ്രഷൻ നമ്മൾ ലിമിറ്റ് എടുക്കുന്നു അതിനാൽ ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് ln ആയി മാറും ഇത് ഒരു തുടർച്ചയായ പ്രവർത്തനമായതിനാൽ നമുക്ക് ഈ ലിമിറ്റ് ഇവിടെ ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ ഇവിടെ 0 × ∞ ഫോമിന്റെ രൂപങ്ങളാണെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതുപോലെ നമുക്ക് മുമ്പ് ചെയ്തതുപോലെ കൈകാര്യം ചെയ്യാനും ഈ ലിമിറ്റ് L ആണെന്ന് കരുതുക ഈ ലിമിറ്റ് കണക്കാക്കിയാൽ നമുക്ക് ഈ അൽഗോരിതം എക്സ്പോണൻഷ്യൽ രണ്ടും എടുക്കാം ഈ ലിമിറ്റ് x നേടുന്നതിനുള്ള വശങ്ങൾ y ലേക്ക് പോകുന്നു കാരണം ഇത് ഇവിടെ ആവശ്യമുള്ള ലിമിറ്റ് ഇത് y ആയിരുന്നു ലിമിറ്റ് x y ലേക്ക് പോകുന്നത് ഈ സംഖ്യ L ന്റെ എക്സ്പോണൻഷ്യൽ ആയി മാറും 00 ∞0 1∞ എന്നിവയുടെ എല്ലാ രൂപങ്ങളും ഇവയുടെ ലോഗരിഥമിക് എടുത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു ഈ ഫംഗ്ഷൻ y നമ്മൾ ഇവിടെ f പവർ g അനുമാനിച്ചു ഇപ്പോൾ നമുക്ക് ഇവിടെ xx x 0 എന്നിവയിലേക്ക് പോകാം y മുമ്പ് ചർച്ച ചെയ്തതുപോലെ xx ന് തുല്യമാണ് x lnx ആയി മാറും ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇപ്പോൾ x lnx ന്റെ ലിമിറ്റ് ഉണ്ട് നമ്മൾക്ക് മുമ്പ് 0 × ∞ ഫോം ഉണ്ട് അതിനുമുമ്പ് നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ∞ ∞ ഫോമിലേക്ക് കൊണ്ടുവരും lnx ഉം 1x ഉം ഇപ്പോൾ ഇവിടെ L'Hospital റൂൾ പ്രയോഗിക്കുക lnx 1 x ഉം ഇവിടെ 1 x2 ഉം ലളിതമായി ഇവിടെ x 0 ലേക്ക് പോകുകയും ചെയ്യും ഇത് 0 ആയിത്തീരുകയും തുടർന്ന് ഇരുവശത്തിന്റെയും എക്സ്പോണൻഷ്യൽ എടുക്കുകയും ചെയ്യും y എന്ന ലിമിറ്റ് ഇവിടെ e0 ന് തുല്യമാണെന്ന് നമുക്ക് ലഭിക്കും ഇത് നിങ്ങൾ ഇവിടെ പരിഗണിക്കുകയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം അതായത് 1∞ Cos x 1 ലും 1 x ∞ ലും പോകുന്നു നമ്മൾക്ക് 1∞ ഫോം ഉണ്ട് സമാന പ്രക്രിയയെ y ലോഗരിഥമിക് എടുക്കുന്നു log y ആയിരിക്കും ഇപ്പോൾ ഇത് log 1 ആണ് ഇവിടെ വീണ്ടും 0 ലേക്ക് പോകുന്നു ലിമിറ്റ് എടുത്തുകഴിഞ്ഞാൽ 00 ഫോം നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കും നമ്മൾ ഇവിടെ ln cos x ന്റെ ഡെറിവേറ്റീവ് എടുക്കും അത് 1 cos x ആയിരിക്കും ഈ cos x ഡെറിവേറ്റീവ് -sin x 1 ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഹരിക്കപ്പെടും നമ്മൾ മൈനസ് 10 x x 0 ലേക്ക് പോയാൽ 0 ലേക്ക് പോകുന്നു നമുക്ക് ഈ ലിമിറ്റ് 0 ആണ് തുടർന്ന് ഈ എക്സ്പോണൻഷ്യൽ ഇരുവശത്തും എടുത്താൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഫംഗ്ഷൻ ആയിരുന്ന y cos ലിമിറ്റ് ലഭിക്കും അത് 1 ലേക്ക് പോകുന്നു അവസാനമായി ഈ ലിമിറ്റ് 1sinx 1lnx എന്നിവയുടെ ഒരു ഉദാഹരണം കൂടി നമ്മൾ പരിഗണിക്കുന്നു x 0 ലേക്ക് പോകുന്നു നമ്മൾക്ക് ∞0 ഫോം ഉണ്ട് വീണ്ടും ഇവിടെ ലിമിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ലോഗരിഥമിക് എടുക്കുകയോ ചെയ്യുക ഇവിടെ ഇത് 1 lnx ∞ ആകും x 0 ലേക്ക് പോകുമ്പോൾ ഇത് ഒരു 0 ആണ് തുടർന്ന് ഇവിടെ ln ∞ 0 x ∞ ഫോം തുടർന്ന് ലോഗരിഥമിക് എടുക്കുമ്പോൾ നമുക്ക് ഇത് മാറ്റിയെഴുതാം ഞാൻ ഇപ്പോൾ ലിമിറ്റ് എടുക്കുന്നു ഇത് ആണ് ln ∞ ∞ അതിനെ lnx കൊണ്ട് ഹരിക്കുന്നു ഇതും ∞ ലേക്ക് പോകുന്നു നമ്മൾക്ക് ∞ ∞ ഉണ്ട് ന്യൂമറേറ്റർ ln1sinx ഉം ഡിനോമിനേറ്റർ lnx ഉം ആണ് ഇപ്പോൾ നമുക്ക് L ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും ഇവിടെ ln1sinx ഇതിന്റെ ഡെറിവേറ്റീവ് sinx ഉം 1 sinx ന്റെ ഡെറിവേറ്റീവ് 1 sin2x ഉം sinx ന്റെ ഡെറിവേറ്റീവ് cos x ഉം ആയിരിക്കും ഇത് ln1sinx എന്ന ന്യൂമറേറ്റർ പദത്തിന്റെ ഡെറിവേറ്റീവ് ആണ് തുടർന്ന് ln x 1 x നൽകും ഇപ്പോൾ നമുക്ക് ഇത് ലളിതമാക്കാൻ കഴിയും ഇവിടെ നമുക്ക് cos xsin x പദം ഉണ്ട് തുടർന്ന് അവിടെ x cosxsinx ഇപ്പോൾ ഈ ലിമിറ്റ് 1 ആയി മാറുന്നുവെന്നും പിന്നീട് cos 0 ഉം 1 ആണെന്നും നമുക്കറിയാം നമുക്ക് ln x 0 y ആയി e ആയി ലഭിക്കും ഓരോ ഫോമിന്റെയും ഒരു ഉദാഹരണമെങ്കിലും നമ്മൾ പരിഗണിച്ചു ഈ പ്രഭാഷണത്തിന്റെ തയ്യാറെടുപ്പിനായി ഉപയോഗിക്കുന്ന റഫറൻസ് ഇവയാണ് 0 × ∞ ∞ × ∞ ന്റെ ഇൻഡിറ്റർമിനെറ്റ് രൂപവും ലോഗരിഥമിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ഈ മൂന്നും ആണ് ഇന്ന് നമ്മൾ പഠിച്ചത് എല്ലാ സാഹചര്യങ്ങളിലും 00 അല്ലെങ്കിൽ ∞ ∞ ഫോമിലേക്ക് പോകുമ്പോൾ രണ്ട് ഫംഗ്ഷനുകളുടെയും അനുപാതത്തിന്റെ ലിമിറ്റ് ഡെറിവേറ്റീവുകളുടെ ഡെറിവേറ്റീവ് അനുപാതത്തിന്റെ ലിമിറ്റിന് തുല്യമാകുമെന്ന് പറയുന്ന എൽ ഹോസ്പിറ്റൽ റൂൾ നമ്മൾ ഉപയോഗിച്ചു ഇത് വളരെ ഉപകാരപ്രദമായ ഒരു നിയമമായിരുന്നു L'Hospital ഈ ആശയങ്ങളെല്ലാം ഒരൊറ്റ ആശയത്തിന്റെ സഹായത്തോടെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു വളരെയധികം നന്ദി